നമുക്ക് ഇപ്പോൾ ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉണ്ട് RG പോലുള്ള സർക്യൂട്ടിലെ അധിക ഘടകങ്ങളുടെ പ്രഭാവം കാണുന്നതിന് നമ്മൾ അത് ശരിയായി വിശകലനം ചെയ്യണം കപ്പാസിറ്ററുകളുടെ മൂല്യങ്ങളിൽ ശരിയായ കൺസ്ട്രെയിൻറ്സ് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഇതാണ് നിങ്ങളുടെ പക്കലുള്ള സർക്യൂട്ട് നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ആദ്യമായാണ് കാണിച്ചതെന്ന് വിചാരിക്കുക MOS ട്രാൻസിസ്റ്റർ സർക്യൂട്ടുകൾ ഉൾപ്പെട്ടിട്ടുള്ള സർക്യൂട്ടുകൾ എങ്ങനെ വിശകലനം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഇത് ആദ്യമായി കാണുകയാണ് നിങ്ങൾ എന്തുചെയ്യും ആദ്യം നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് dc ഓപ്പറേറ്റിംഗ് പോയിന്റ് പരിശോധിക്കും അതിനായി നിങ്ങൾ എല്ലാ കപ്പാസിറ്ററുകളും ഓപ്പൺ സർക്യൂട്ടും എല്ലാ ഇൻഡക്റ്ററുകളും ഷോർട്ട് സർക്യൂട്ടുകളും ആക്കണം വാസ്തവത്തിൽ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിലും ഈ പുതുതായി ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് VGS VDS തുടങ്ങിയവ കണ്ടെത്താനാകും ഇത് സാച്ചുറേഷനിൽ ആണോ ട്രയോഡ് മേഖലയിലാണോ എന്ന് നോക്കുക തുടർന്ന് ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ പാരാമീറ്ററുകൾ കണക്കാക്കുക തുടർന്ന് ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ ചിത്രം വരയ്ക്കുക അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക ഇപ്പോൾ ഞാൻ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഭാഗം ഒഴിവാക്കാൻ പോകുന്നു കാരണം ഞാൻ C1 C2 സർക്യൂട്ടുകൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സോഴ്സും ലോഡും പോകും നമുക്ക് ഡ്രെയിൻ ഫീഡ്ബാക്ക് സർക്യൂട്ട് മാത്രമേ ഉണ്ടാകൂ VGS ഉം VDS ഉം പരസ്പരം തുല്യമാകുമെന്നും നമുക്കറിയാം അത് Vt 2IdnCox ന് തുല്യമായിരിക്കും ഇപ്പോൾ ഇതിന്റെ സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രം വിശകലനം ചെയ്യാം ഒരു ഫിക്സ്ഡ് വോൾട്ടേജ് സോഴ്സ് പോലെ ഫിക്സ് ചെയ്തിട്ടുള്ള എന്തും ഗ്രൌണ്ടുമായി ഷോട്ട് ചെയ്തിരിക്കുന്നു അതിനാൽ ഇതും ഗ്രൌണ്ടുമായി ഷോട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ നമുക്ക് ഒരു ഫിക്സ്ഡ് കറൻറ് സോഴ്സ് I0 ഉണ്ട് ഇത് ഒരു ഓപ്പൺ സർക്യൂട്ടായി മാറുന്നു കാരണം അതിൽ വർദ്ധനവ് ഇല്ല സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഇത് പൂജ്യമായി മാറുന്നു ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ് അതിനാൽ സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ അർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്ന സർക്യൂട്ട് ഇതാണ് ഇതാണ് MOS ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ നമുക്ക് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ C2 RL എന്നിവയുണ്ട് ഇതാണ് VGS ഈ gm ഈ VGS നെ ഗുണിക്കുന്നു ഞാൻ ടെർമിനലുകൾ അടയാളപ്പെടുത്താം തുടക്കത്തിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ പരിചയമില്ലാത്തപ്പോൾ സ്മോൾ സിഗ്നൽ ചിത്രം വരയ്ക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ഏറ്റവും മികച്ചത് ഒന്നും മാറ്റാതിരിക്കുന്നതാണ് പക്ഷേ മൊത്തം സർക്യൂട്ടിൽ നിന്ന് ആരംഭിച്ച് MOS ട്രാൻസിസ്റ്ററിനെ മാത്രം അതിന്റെ സ്മോൾ സിഗ്നൽ ഇക്യുവാലന്റ് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക തുടർന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സർക്യൂട്ട് മാറ്റി വരയ്ക്കുക ഇപ്പോൾ നമുക്ക് ഈ രണ്ട് കപ്പാസിറ്ററുകൾ ഉണ്ട് ഈ കപ്പാസിറ്ററുകൾ ഷോർട്ട് സർക്യൂട്ടുകൾ പോലെ പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ കൺസ്ട്രെയിൻറ്സ് പിന്നീട് വിലയിരുത്തും എന്നാൽ ഇപ്പോൾ അവക്കുള്ള എല്ലാ കൺസ്ട്രെയിൻറുകളും അവ തൃപ്തിപ്പെടുന്നുവെന്ന് നമ്മൾ അനുമാനിക്കും മാത്രമല്ല അവ ആവശ്യമുള്ള സിഗ്നൽ ആവൃത്തിക്ക് ഷോർട്ട് സർക്യൂട്ടുകൾ പോലെ പെരുമാറുകയും ചെയ്യുന്നു എന്താണ് കൺസ്ട്രെയിൻറ്സ് എന്ന് നമ്മൾ പിന്നീട് കാണും അതിനാൽ നമ്മുടെ സർക്യൂട്ട് വളരെ ലളിതമാണ് നമുക്ക് Vs Rs gm VGS എന്നിവയുണ്ട് ഇവിടെ ഇത് VGS ആണ് RG യും ലോഡ് പ്രതിരോധം RL ഉം ഈ വിശകലനങ്ങളിലെല്ലാം നമ്മൾ MOS ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഒഴിവാക്കി പക്ഷേ നിങ്ങൾ ഇത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വളരെ എളുപ്പമാണ് ഇവിടെ ഇത് RLന് സമാന്തരമായി ദൃശ്യമാകുന്നു മറ്റ് ചില സർക്യൂട്ടുകളിൽ ഇത് വ്യത്യസ്തമായിരിക്കാം പക്ഷേ പൊതുവായി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എല്ലാ കോമൺ സോഴ്സ് ആംപ്ലിഫയർ സർക്യൂട്ടുകളിലും ഇത് RLന് സമാന്തരമായി ദൃശ്യമാകുന്നു അതിനാൽ സ്മോൾ സിഗ്നൽ ഔട്ട്പുട്ട് കണ്ടക്ടൻസ് ഉൾപ്പെടെയുള്ള ഫലങ്ങൾ അറിയണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് RL നു പകരം നിങ്ങൾ ചെയ്യേണ്ടത് rds RL എന്നിവയുടെ സമാന്തര സംയോജനം പരിഗണിക്കുക എന്നതാണ് ഇപ്പോൾ ഇത് സാധാരണ ലീനിയർ സർക്യൂട്ട് വിശകലനം മാത്രമാണ് ഈ സർക്യൂട്ടിൽ നമുക്ക് രണ്ട് നോഡുകൾ മാത്രമേയുള്ളൂ കൂടാതെ ഈ വോൾട്ടേജ് Vo എന്ന് വിളിക്കാം അതാണ് RL നു കുറുകെയുള്ള വോൾട്ടേജ് ഞാൻ നോഡ് സമവാക്യം എഴുതാം സാധാരണയായി കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ആദ്യഘട്ടത്തിൽ സർക്യൂട്ടുകളിൽ പരിശീലനം നേടുമ്പോൾ ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ ഇത് പകർത്തട്ടെ ഇപ്പോൾ ഞാൻ ഈ നോഡിൽ സമവാക്യം എഴുതാം ആ നോഡിലുള്ള സമവാക്യം അതായത് ആ നോഡിലേക്ക് ഒഴുകുന്ന മൊത്തം കറൻറ് Rs ലേക്ക് ഒഴുകുന്ന കറൻറ് Rsആണ് ഈ VGS ഉം ഗ്രൌണ്ടുമായി ബന്ധപ്പെട്ട് അളക്കുന്നു കാരണം ഈ സോഴ്സ് ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു അതിനാൽ അതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക അത് എല്ലാ സർക്യൂട്ടുകളിലും ശരിയായിരിക്കില്ല പ്ലസ് RG ഇത് RG വഴി ഒഴുകുന്ന കറൻറ് ആണ് ഇത് പൂജ്യത്തിന് തുല്യമാണ് ഈ നോഡിൽ അതായത് ഔട്ട്പുട്ട് നോഡിൽ നമുക്ക് നോഡിലേക്ക് ഒഴുകുന്ന കറൻറ് അല്ലെങ്കിൽ നോഡിൽ നിന്ന് പോകുന്ന കറൻറ് പരിഗണിക്കാം gm ഇതിനകം ഇതിൽ നിന്ന് പോകുന്നതിനാൽ ഈ വഴിയിലൂടെയും ആ വഴിയിലൂടെയും gm VGS ലൂടെയും പോകുന്ന എല്ലാ കറൻറുകളും ഞാൻ എടുക്കും പുറത്ത് പോകുന്ന കറൻറ് അതായത് gm VGS പ്ലസ് RG യിലൂടെ പുറത്ത് പോകുന്ന കറൻറ് എന്നത് RG പ്ലസ് RL ലൂടെ പുറത്ത് പോകുന്ന കറൻറ് ആണ് അത് Vo RL ആണ് ഇവയെല്ലാം കൂട്ടിയാൽ പൂജ്യം ലഭിക്കും VGS Vo എന്നിവയ്ക്കായി ഈ രണ്ട് ലീനിയർ സമവാക്യങ്ങളും നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് Vo ആണ് ഇപ്പോൾ ഇത് നിങ്ങൾതന്നെ പരിഹരിക്കുക ഞാൻ ഉത്തരം എഴുതാൻ പോകുന്നു വേരിയബിളുകളും മറ്റും ഇല്ലാതാക്കുന്നതിനുള്ള ഘട്ടങ്ങളിലൂടെ ഞാൻ പോകുന്നില്ല അതിനാൽ നിങ്ങൾ അത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് V0 Vs gm RG RL - RL gm RL Rs Rs RL RG കിട്ടും കുറച്ച് സങ്കീർണ്ണമായ ഒരു എക്സ്പ്രെഷനായി തോന്നുന്നു ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിനായി ആലോചിക്കുക അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അധിക ഘടകങ്ങൾ ഒന്നുമില്ലാത്ത കോമൺ സോഴ്സ് ആംപ്ലിഫയർ V0 ബൈ Vs എന്തായിരിക്കും അത് gm RL ആണ് ഇപ്പോൾ നമുക്ക് കുറച്ച് വ്യത്യസ്തമായ ഒരു പദപ്രയോഗമുണ്ട് എന്നാൽ അതിന്റെ അർത്ഥമെന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി എന്തുകൊണ്ടാണ് നമുക്ക് ഈ RG ഉണ്ടായിരുന്നത് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് dc ഫീഡ്ബാക്ക് നൽകുന്നതിന് ആണ് ഈ RG ഇത് dc ചിത്രത്തിന് മാത്രമേ ആവശ്യമുളളൂ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഇത് ശരിക്കുമില്ല അതിനാൽ ഒരു പ്രതിരോധം ഇല്ലാത്തപ്പോൾ അത് ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് അർത്ഥമാക്കുന്നു അതിന്റെ മൂല്യം ഇൻഫിനിറ്റിയാണ് അതിനാൽ മറ്റൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ RG വളെരെ വലുതായിരിക്കണമെന്ന് ഊഹിക്കാൻ കഴിയും കാരണം സ്മോൾ സിഗ്നൽ ചിത്രത്തിൽ അത് അവിടെ ഇല്ലാത്തത്ര നല്ലതായിരിക്കണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ പദപ്രയോഗത്തിലേക്ക് മടങ്ങാം എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം RG വളരെ വളരെ വളരെ വലുതാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാം അതിനാൽ അതിനർത്ഥം നിങ്ങൾക്ക് RG ഡിനോമിനേറ്ററിൽ ഉണ്ടെന്നും അവയിൽ ഒരെണ്ണം RG തന്നെയാണ് നമുക്ക് മറ്റ് മൂന്ന് പദങ്ങളുമുണ്ട് കൂടാതെ RG എന്നത് gm RLRs Rs RL തുടങ്ങി മറ്റെല്ലാ പദങ്ങളേക്കാളും വളരെ കൂടുതലാണെന്നും പറയാം അതുപോലെ ന്യൂമറേറ്ററിൽ RG അടങ്ങിയ പദം മറ്റുള്ളവയേക്കാൾ വളരെ കൂടുതലാണെന്ന് പറയട്ടെ അതായത് RLനേക്കാൾ വളരെ കൂടുതലാണ് gm RGRL ഈ സാഹചര്യത്തിൽ എനിക്ക് മറ്റെല്ലാ പദങ്ങളും അവഗണിക്കാനും RG അടങ്ങിയിയ പദങ്ങൾ മാത്രം നിലനിർത്താനും കഴിയും RG വലുതായിരിക്കണമെന്ന് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഒരു വ്യത്യസ്തമായ കേസ് എടുക്കുന്നു അത് വളരെ വലുതാണ് നമ്മൾ ഇത് ഇതുവരെ കണക്കാക്കിയിട്ടില്ല പക്ഷേ ഇത് വളരെ വലുതാണ് മറ്റ് പദങ്ങൾ കണ്ടുപിടിക്കുക അതിനാൽ ഇത് അവഗണിക്കാം ഇത് അവഗണിക്കാം അതും അവഗണിക്കാം ന്യൂമറേറ്ററിൽ അത് അവഗണിക്കാം നമ്മൾ ഇത് ചെയ്താൽ ഇത് ഏകദേശം gm RGRL RG ആയി മാറുന്നു ഇത് gm RL നു തുല്യമാണ് ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ ഗേറ്റിനുള്ള പദപ്രയോഗത്തിന് തുല്യമാണ് അതിനാൽ RG വളരെ വളരെ വലുതാണെങ്കിൽ ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കുന്നു അത് എത്ര വലുതായിരിക്കണം ഇത് ഈ രണ്ട് പരിമിതികളെയും തൃപ്തിപ്പെടുത്തണം പക്ഷേ വാസ്തവത്തിൽ നിങ്ങൾ അവയിലൊന്ന് തൃപ്തിപ്പെടുത്തുകയാണെങ്കിൽ മറ്റേത് സ്വയം തൃപ്തിപ്പെടും അതിനാൽ ഒന്നാമതായി നമ്മൾ ഒരു ആംപ്ലിഫയറിലേക്കാണ് നോക്കുകയാണ് അതിനാൽ gmRL ന്റെ അളവ് തന്നെ ഒന്നിൽ കൂടുതൽ ആണെന്ന് പ്രതീക്ഷിക്കാം ഇത് തീർച്ചയായും ഒന്നിൽ കൂടുതൽ ആണ് ഇത് ഒന്നിൽ കൂടുതൽ ആകാം അതിനാൽ RG ഈ ആദ്യ പദത്തേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ അത് സ്വയമേ ഒന്നിനേക്കാളും അതിനെക്കാളും കൂടുതലായിരിക്കുമെന്നത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾക്ക് ഈ gm RL ഉണ്ട് അതിനെ ഗുണിക്കാൻ അതിനാൽ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ള അവസ്ഥ RG എന്നത് gmRLRs നേക്കാൾ വളരെ വലുതായിരിക്കണം ഇപ്പോൾ രണ്ടാമത്തെ വ്യവസ്ഥ പറയുന്നത് gm RGRL എന്നത് RLനേക്കാൾ വളരെ വലുതായിരിക്കണം എന്നാണ് കൂടാതെ RL ഇരുവശത്തും കോമൺ ആണ് അതിനാൽ gm RG എന്നത് ഒന്നിനേക്കാൾ വളരെ വലുതായിരിക്കണം എന്ന് ഇത് പറയുന്നു RG വളരെ വലുതാണെങ്കിൽ ഇതും സ്വയം സംതൃപ്തമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഗെയിൻ gm RL ഒന്നിൽ കൂടുതൽ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യ കണ്ടിഷനിൽ നിന്ന് RG RLനേക്കാൾ വളരെ കൂടുതലാണെന്ന് കിട്ടുന്നു അതിനാൽ ഇതും സ്വയം സംതൃപ്തമാകും അതിനാൽ പ്രധാനമായും RG gm RL Rs നേക്കാൾ വലുതായിരിക്കാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ് ഇപ്പോൾ തീർച്ചയായും സോഴ്സ് ഐഡിയൽ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ചോദിക്കാം സിഗ്നൽ സോഴ്സ് ഐഡിയൽ ആണ് കൂടാതെ Rs പൂജ്യവുമാണ് RG പൂജ്യത്തേക്കാൾ വളരെ കൂടുതലാണെന്ന് ഇത് പറയുന്നു ഇത് RG ഏത് സംഖ്യയാണെങ്കിലും ശരിയാണ് അതിനാൽ Rs വളരെ ചെറുതാണെങ്കിൽ ആദ്യത്തേത് തൃപ്തിപ്പെടുന്നു ഉദാഹരണത്തിന് Rs പൂജ്യമാണെങ്കിൽ ആദ്യത്തേത് തൃപ്തിപ്പെടുത്തുന്നത് മറ്റുള്ളത് തൃപ്തിപ്പെടണമെന്ന് അർത്ഥമാക്കുന്നില്ല അത്തരം സന്ദർഭങ്ങളിൽ അടിസ്ഥാനപരമായി RG RL നേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ RG എന്നത് gm RL Rs അല്ലെങ്കിൽ RL നേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ Rs പൂജ്യമായിരിക്കുന്നത് ഞാൻ വിശദീകരിച്ചു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഗെയിനിനു വേണ്ടി Rs പൂജ്യമായി വച്ചുകൊണ്ട് V0 by Vs എന്നത് ചെയ്യുക ഉദാഹരണത്തിന് നമുക്ക് അത് ലഭിക്കുകയാണെങ്കിൽ ഇവിടെ അത് പകരം വയ്ക്കാം Rs പൂജ്യമാണെങ്കിൽ നമുക്ക് gm RG RL - RL ഉണ്ടാകും ഡിനോമിനേറ്ററിൽ നമുക്ക് RL RG മാത്രമേ ഉണ്ടാകൂ അതിനാൽ RG RLനേക്കാൾ കൂടുതലാണെങ്കിൽ ഇത് ഇല്ലാതാകും ഇതും ഇല്ലാതാകുന്നു അതിനാൽ ഈ അവസ്ഥ പൂർത്തിയായാൽ ഡ്രെയിനും ഗേറ്റും തമ്മിൽ ഒരു പ്രതിരോധം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സ്വഭാവം ഉണ്ടാകും അതിനാൽ RG യുടെ കൺസ്ട്രെയിന്റ് അതാണ് സർക്യൂട്ടുകളിൽ ഇത് വളരെ സാധാരണമായ കണ്ടിഷൻ ആണ് അതിനാൽ ചില ചിത്രങ്ങൾക്ക് dc അല്ലെങ്കിൽ ac ഈ ഘടകം പ്രാധാന്യമുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലതിനു പ്രാധാന്യമില്ലാത്തതും നിങ്ങൾക്ക് ഉള്ളത് കൺസ്ട്രെയിന്റ്സ് ആണ് ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് RG എന്തിനെലും തുല്യമായി ലഭിച്ചിട്ടില്ലെന്ന് ഓർക്കുക അതിനാൽ RG എന്തിനെക്കാളും കൂടുതലായിരിക്കണം നിങ്ങൾ അതിനേക്കാൾ വലുത് എന്തെങ്കിലും തിരഞ്ഞെടുക്കണം കപ്പാസിറ്ററിനായി ഞാൻ സൂചിപ്പിച്ചതു പോലെ നിങ്ങൾക്കത് പത്തിരട്ടിയോ നൂറു മടങ്ങോ ആയി എടുക്കാം എന്നിട്ട് അത് ഉപയോഗിച്ച് പൂർത്തിയാക്കുകയും ചെയ്യാം